ഇപ്പോൾ നമുക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല നമുക്ക് ഒരു പുതിയ ഗണിതശാസ്ത്ര സാങ്കേതികത ആവശ്യമാണ് അതിനാൽ പുതിയ ഗണിതശാസ്ത്ര സാങ്കേതികത എന്താണെന്നും അതാണ് ഗ്രീൻ ഫംഗ്ഷനുകളുടെ സാങ്കേതികത ശരിയെന്നും നോക്കാം വെക്റ്റർ കാൽക്കുലസിന്റെ പശ്ചാത്തലത്തിൽ പച്ചയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വെക്റ്റർ കാൽക്കുലസിന്റെ ചില ഐഡന്റിറ്റികൾക്ക് പച്ച വലത്തിന്റെ പേരിലാണ് പേര് നൽകിയിരിക്കുന്നത് അതിനാൽ അദ്ദേഹം ഈ മേഖലയിൽ വളരെയധികം പ്രവർത്തിച്ചു അതിനാൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിനുശേഷം പോകുന്നു അതിനാൽ ഇവിടെ ധാരാളം വസ്തുക്കൾ നമുക്ക് ഓരോന്നായി പോകാം എനിക്ക് ഈ രണ്ട് സമവാക്യങ്ങളുണ്ട് നിലവിലെ ഉറവിട ഭാഗം മുഴുവൻ ഒരു ടേം Q OK ആയി ചുരുക്കിയിരിക്കുന്നു ഇത് വൈദ്യുതധാര കൊണ്ട് ഗുണിച്ച ഭൌതിക സ്ഥിരാങ്കമാണ് അതിനാൽ ഞാൻ ഇതിനെ Q എന്ന് വിളിക്കാൻ പോകുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് സമവാക്യങ്ങളും ഈ പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ല അതിനാൽ ഇപ്പോൾ ഞാൻ ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് ജീവിതം കൂടുതൽ സങ്കീർണ്ണമാക്കാൻ പോകുന്നു ലളിത വീണ്ടും ശരി അപ്പോൾ എന്താണ് പുതിയ സങ്കീർണത ഞാൻ രണ്ട് പുതിയ ഫംഗ്ഷനുകൾ അവതരിപ്പിച്ചു ഞാൻ അവയെ g1 g2 എന്ന് വിളിക്കുന്നു പിന്നെ അവരുടെ സ്വത്തുക്കൾ എന്തൊക്കെയാണ് ഈ രണ്ട് സമവാക്യങ്ങളും അവർ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ നമുക്ക് ആദ്യത്തെ സമവാക്യം വായിക്കാം അതിനാൽ ശരിയാണെന്ന് പറയുന്നു അതിനാൽ ഈ ഡെൽറ്റ ഫംഗ്ഷൻ നിങ്ങളുടെ സാധാരണ Dirac delta ഫംഗ്ഷനാണ് അതിനാൽ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് എല്ലായിടത്തും 0 ആണ് rr എന്ന ബിന്ദുവിൽ അനന്തമാണ് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു ഫംഗ്ഷൻ അല്ല അതിനാൽ പക്ഷേ എനിക്ക് ഇത് അവിഭാജ്യമാണെന്ന് സംസാരിക്കാം ഈ ഏകത്വ പോയിന്റ് ഞാൻ ഉൾക്കൊള്ളുന്നിടത്തോളം ഡെൽറ്റ ഫംഗ്ഷന്റെ അവിഭാജ്യ ഘടകം 1 ശരിയാണ് അതിനാൽ ഞാൻ ചെയ്തത് ഈ രണ്ട് പുതിയ ഫംഗ്ഷനുകൾ അവതരിപ്പിച്ചു എന്നതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും എഴുതാൻ പോകുന്നതിനാൽ ഞാൻ r ok എന്നതിന് മുകളിൽ വെക്ടറുകൾ അടയാളപ്പെടുത്തുന്നു അതിനാൽ ഞാൻ എഴുതിയത് വെറും r ആണെങ്കിലും നിങ്ങൾ r എന്ന് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആണെന്ന് മനസ്സിലായി പക്ഷേ അത് മൊത്തത്തിൽ വളരെ വിചിത്രമാക്കുന്നു അതിനാൽ ഞാൻ ഇത് വെക്റ്റർ വശം നീക്കംചെയ്യുന്നു അതിനാൽ സന്ദർഭത്തിൽ നിന്ന് ഞാൻ വെക്ടറിനെ പരാമർശിക്കുമ്പോൾ മൂല്യത്തെ സൂചിപ്പിക്കുമ്പോൾ r ok യുടെ കേവല മൂല്യം വ്യക്തമാക്കണം അതിനാൽ നമ്മൾ എന്തിനിലേക്കും കടക്കുന്നതിന് മുമ്പ് ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിലുള്ള സമാനതകൾ എന്താണെന്ന് ഈ സമവാക്യം ഓർമ്മിപ്പിക്കുന്നു ഒരേ ശരിയാണെന്ന് തോന്നുന്നു അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളും ഇതുപോലെ കാണപ്പെടുന്നു കൂടാതെ എന്തെങ്കിലും ഒന്നിന് തുല്യമാണ് ഈ രണ്ട് സമവാക്യങ്ങളും ശരിയായി യോജിക്കുന്ന പൊതു ടെംപ്ലേറ്റ് അതാണ് എന്ന് തോന്നുന്നു വലതുഭാഗം പൂജ്യമല്ലാതാക്കിയാൽ എനിക്ക് രണ്ടാമത്തെ സമവാക്യം ലഭിക്കും മറ്റൊന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ സമവാക്യം r എന്ന ഒരു വേരിയബിളിലെ സമവാക്യമാണ് രണ്ടാമത്തെ സമവാക്യം ഇപ്പോൾ ഞാൻ ഒരു വേരിയബിൾ r ok കൂടി അവതരിപ്പിച്ചു അത് ആദ്യം അൽപ്പം വിചിത്രമായി തോന്നും പക്ഷേ അത് ജീവിതത്തെ വളരെ ശക്തമാക്കുമെന്ന് കാണും അവസാനമായി ഈ ഡെൽ സ്ക്വയർഡ് ഓപ്പറേറ്റർ ഇത് അൺപ്രൈംഡ് കോർഡിനേറ്റുകളിൽ മാത്രമേ പ്രവർത്തിക്കൂ അതിനാൽ r ന്റെ ഏതെങ്കിലും പ്രവർത്തനം നേരിടുമ്പോൾ അത് സ്ഥിരമായ അവകാശമാണ് അതിനാൽ ഇത് ഞങ്ങൾ പറയുന്നത് അൺപ്രൈമിൽ പ്രവർത്തിക്കുന്നത് നല്ലതാണ് അതിനാൽ ഇത് ഒരു അനുമാനം മാത്രമാണ് അതിനാൽ ഞാൻ ഇത് ഇവിടെ വ്യക്തമായി എഴുതില്ലെന്ന് ഞാൻ കരുതുന്നു ശരി അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതിനാൽ ഞങ്ങൾ ചെയ്യുന്ന തന്ത്രം ഞങ്ങൾ ആദ്യത്തെ സമവാക്യം എടുക്കും ഞാൻ ഈ ആദ്യ സമവാക്യം കൊണ്ട് ഗുണിച്ചാൽ രണ്ടാമത്തെ സമവാക്യം ശരി കൊണ്ട് ഗുണിച്ചാൽ എടുക്കുക കൂടാതെ ഇവ രണ്ടും കുറയ്ക്കുക ഇവ രണ്ടും കുറച്ചാൽ എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ട് വിദ്യാർത്ഥി വലതു വശം വലത് വശം വലത് വശം അതിന് കാര്യമായൊന്നും സംഭവിക്കില്ല ഇടതുവശത്ത് എത്ര പദങ്ങൾ ഉണ്ട് അത് 4 പദങ്ങൾ ആയിരിക്കണം എന്നാൽ ഇതിനെ ഗുണിച്ചാൽ എന്ത് സംഭവിക്കും പദങ്ങൾക്കൊപ്പം എന്ത് സംഭവിക്കും Student cancel അവർ വലത് റദ്ദാക്കുന്നു അതിനാൽ എനിക്ക് ഒരു അവകാശം ഉണ്ടാകും കാലാവധി പോകുന്നു ഇപ്പോൾ ഞാൻ വലതുവശത്ത് അവശേഷിക്കുന്നു അതിനാൽ വലതുഭാഗം ശരിയാണ് ഞാൻ ഇവിടെ അൽപ്പം അലസനാണ് ഇവരെല്ലാം ഇവരെല്ലാം യഥാർത്ഥത്തിൽ ആർ ആർ ഓകെയുടെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം ശരി എന്തായിരിക്കും അതിനാൽ എനിക്ക് ആദ്യ ടേമിൽ നിന്ന് ഒരു ഉണ്ടാകും രണ്ടാമത്തെ ടേം മുതൽ ഞാൻ അവ കുറയ്ക്കുകയാണ് അതിനാൽ എനിക്ക് ഒരു ഉണ്ടാകും ഞാൻ ഈ രണ്ട് സമവാക്യങ്ങളും ശരിയായി കുറയ്ക്കുകയാണ് അതിനാൽ ഇത് റദ്ദാക്കി അതിനാൽ എനിക്ക് ഇതെല്ലാം ശരിയാണ് അതിനാൽ ഇപ്പോഴും ഇത് നോക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ശരിയായി തുടങ്ങിയപ്പോൾ ഇത് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നുന്നു പക്ഷേ ഇത് ഞങ്ങൾ എടുക്കേണ്ട കുറച്ച് ഘട്ടങ്ങളാണ് ഈ പദത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ശരി ഞങ്ങൾ ഇനിയും കുറച്ച് വെക്റ്റർ കാൽക്കുലസ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ വെക്റ്റർ കാൽക്കുലസിലെ ഉൽപ്പന്ന നിയമം എന്ന് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നതിന്റെ ഐഡന്റിറ്റി ഇതാ അതിനാൽ എനിക്ക് രണ്ട് ഫംഗ്ഷനുകളുണ്ട് g ഒപ്പം അതിനാൽ ഞാൻ ഉൽപ്പന്നത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇൻ വെക്റ്റർ കാൽക്കുലസ് അത് വ്യതിചലനം ശരിയാകും അതിനാൽ നമ്മൾ എന്തിനും കടക്കുന്നതിന് മുമ്പ് ഇടത് വശത്ത് നോക്കുക ഇടത് വശം ഒരു സ്കെലാർ അല്ലെങ്കിൽ വെക്റ്റർ ആണ് വിദ്യാർത്ഥി സ്കെലാർ അതെ ഒരു വെക്റ്റർ ആണ് g ഒരു സ്കെയിലർ ആണ് അതിനാൽ ഇത് മൊത്തത്തിൽ ഒരു വെക്റ്റർ ആണ് വിദ്യാർത്ഥി ശരിയാണ് ഞാൻ ഒരു വെക്ടറിന്റെ വ്യതിചലനം എടുക്കുമ്പോൾ എനിക്ക് ഒരു സ്കെയിലർ ലഭിക്കും ഈ പദം ശരിയായി നോക്കുക ഇതൊരു വെക്റ്റർ ആണ് ഇത് വെക്റ്റർ ഡോട്ട് ഉൽപ്പന്ന സ്കെയിലർ ആണ് ഒരു സ്കെലാറിന്റെ സ്കെയിലറിനെ g വലത് കൊണ്ട് ഗുണിച്ചാൽ കുറഞ്ഞത് ഞാൻ അർത്ഥമാക്കുന്നത് ഡൈമൻഷണലായി അർത്ഥമാക്കുന്നത് ഞാൻ വെക്റ്ററിന് തുല്യമായ സ്കെയിലർ എഴുതുന്നില്ല എന്നാണ് അതിനാൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന പരിശോധന നിങ്ങൾ ഈ പദപ്രയോഗം ശരിയായി എഴുതണം അതിനാൽ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഈ സമവാക്യത്തിന്റെ ഇടതുവശം വീണ്ടും എഴുതാൻ എനിക്ക് കഴിയുമോ അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ എഴുതാൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് എഴുതും എന്നതിന് തുല്യമായി എനിക്ക് ഇത് എഴുതാം വിദ്യാർത്ഥി ഡെൽ ഡോട്ട് ജി 1 ഗ്രേഡ് വിദ്യാർത്ഥി ഫൈ 1 ഫൈ 1 ശരിയാണ് കാരണം രണ്ട് തവണയും വീണ്ടും വരും അത് റദ്ദാക്കപ്പെടും അതിനാൽ ഇത് ഞങ്ങൾ ചെയ്ത ഒരു കൃത്രിമത്വമാണ് അതിനാൽ ഈ ഫലം ഞങ്ങളോടൊപ്പം സൂക്ഷിക്കും ഞങ്ങൾ അത് ഓർമ്മയിൽ സൂക്ഷിക്കും ഇപ്പോൾ ഇതുവരെ ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾ അവിഭാജ്യ സമവാക്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിച്ചത് എന്നാൽ ഇതുവരെ വലതുവശത്ത് ഒരിടത്തും അവിഭാജ്യമില്ല അതിനാൽ ആ അവിഭാജ്യത അവതരിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ സമവാക്യം എടുത്ത് വോളിയം V ക്ക് മുകളിൽ സംയോജിപ്പിക്കാം അതിനാൽ നമുക്ക് ഇത് വോളിയത്തിന് മുകളിൽ സംയോജിപ്പിക്കാം അതിനാൽ ഈ മുഴുവൻ കാര്യവും ഞങ്ങൾ ശരിയാക്കാൻ പോകുകയാണ് ഏതെങ്കിലും നിബന്ധനകൾ ലളിതമാക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ അതെ മേഖല 1 ന്റെ വോളിയം ശരിയാണ് അതിനാൽ ഈ വോളിയം സംയോജനത്തിൽ ലളിതമാക്കാവുന്ന ഒരേയൊരു പദം ഏതാണ് അവസാന ടേമിനെക്കുറിച്ച് എന്താണ് ഞാൻ ഒരു ഡെൽറ്റ ഫംഗ്ഷനെ സംയോജിപ്പിക്കുകയാണ് അത് ശരി ലളിതമാക്കിയേക്കാവുന്ന ഒരേയൊരു പദമാണ് മറ്റ് നിബന്ധനകൾ എങ്ങനെ ലളിതമാക്കും എന്ന് വളരെ വ്യക്തമല്ല അതിനാൽ അവ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥി ശരിയാണ് വിദ്യാർത്ഥി അതിൽ സബ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം ഞാൻ അടുത്തതായി എന്തിലേക്കാണ് പോകുന്നത് എന്നതിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ഈ പദം വോളിയത്തിന് മുകളിൽ സമന്വയിപ്പിക്കുമ്പോൾ ഇത് ഈ ഓവർ വോളിയം റൈറ്റ് എന്നതിന്റെ അവിഭാജ്യമായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ വർഷങ്ങളിലും 3D യിൽ ഉണ്ടായിരുന്ന ds ൽ ഞങ്ങൾ വ്യത്യസ്ത സിദ്ധാന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പതിവാണ് ഒരു വോളിയവും ഉപരിതല പ്രവാഹവുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഉയർന്നതോ താഴ്ന്നതോ ആയ അളവുകളിൽ ഈ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഒന്നുമില്ല പ്രധാന ആശയം എനിക്ക് ഇടത് വശത്ത് N അളവുകളിൽ ഒരു വോളിയം ഉണ്ടെങ്കിൽ വലതുവശത്ത് N 1 ഡയമൻഷനിൽ എനിക്ക് അനുബന്ധമായ ഒരു ഉപരിതലമുണ്ട് എന്നതാണ് അതിനാൽ ഞങ്ങളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ 2D അല്ല 3D ആയതിനാൽ വ്യത്യസ്ത സിദ്ധാന്തം ഇനിപ്പറയുന്ന രീതിയിൽ 2D ൽ ലളിതമാക്കുന്നു അതിനാൽ എനിക്ക് ഒരു മാനം ഉപേക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഈ വോള്യം അതിനാൽ ക്ലോസ്ഡ് വോളിയം അതിനാൽ വോളിയം ഫിനിറ്റ് വോളിയം ശരിയാണ് അതിനാൽ ഇത് ഒരു പരിമിതമായ ഉപരിതല വലത് ആയി മാറും dV dS ആയി മാറും dl ആയി മാറും ഈ ds എന്നത് ഈ അവകാശം പോലെയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഓർക്കുക അതിനാൽ ഇതാണ് നിങ്ങൾ 2D വലത് വ്യതിരിക്ത സിദ്ധാന്തം നിങ്ങൾക്ക് ഇത് ഒരു പ്രതലമായി കരുതണമെങ്കിൽ അത് ഇതുപോലെയാണ് ചില ഉപരിതലത്തിൽ ഇടത് വശം ഉള്ളിൽ വിലയിരുത്തപ്പെടുന്നു വലതുഭാഗം അതിർത്തിയിൽ വിലയിരുത്തുന്നു അത് ഒരു കോണ്ടൂർ ഇന്റഗ്രൽ ആണ് അതെ dl ഇതാണ് അതിലൂടെയുള്ള ഫ്ലക്സ് സാധാരണ ദിശയിലുള്ള dl വഴിയുള്ള ഫ്ലക്സ് ആണോ ഇവിടെ അതേ വ്യാഖ്യാനം A യുടെ ഫ്ലക്സ് ആണ് ഒരു ചെറിയ ഏരിയ പാച്ചിൽ ആ ഏരിയ ഇപ്പോൾ ലൈൻ ലെങ്ത് എലമെന്റായി മാറിയിരിക്കുന്നു അതിനാൽ ഈ വ്യതിചലന സിദ്ധാന്തത്തിന്റെ 2D ശരിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് ഇത് ഞങ്ങൾ വ്യതിചലനത്തിന്റെ നിർവചനം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും വളരെ ലളിതമാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കണമെങ്കിൽ ഇത് ശരിയാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ ഈ വ്യതിരിക്ത സിദ്ധാന്തം ഇവിടെ റീജിയൻ 1 ലേക്ക് പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മുടെ പ്രദേശം 1 ശരി അതിനാൽ നമുക്ക് നോക്കാം അതിനാൽ ഇത് ഞങ്ങളുടെ മേഖല 1 ആണ് ഞാൻ ഇവിടെ റീജിയൻ 1 വരയ്ക്കാൻ ശ്രമിക്കുന്നു ഇത് എന്റെ v 1 വലത് മേഖല 1 ആണ് ഇതിന്റെ രണ്ട് അതിരുകൾ എന്തൊക്കെയാണ് എനിക്ക് S ഉം ഉണ്ട് ഇവയെ പരിമിതമായ പ്രതലങ്ങളാണെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഞാൻ സാധാരണ വെക്ടറിനെ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഞാൻ ഒരു പരിമിത വോളിയമായി കരുതുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഈ വോള്യത്തിൽ വ്യതിചലന സിദ്ധാന്തം പ്രയോഗിക്കുമ്പോൾ എത്ര ഉപരിതല ഇന്റഗ്രലുകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ വോളിയം ഒരു പ്രതലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ആ പ്രതലത്തിലൂടെയുള്ള ഫ്ളക്സ് എനിക്ക് ശ്രദ്ധിക്കേണ്ടി വന്നു അതിനാൽ ഇത് വളരെ നേരായതാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ഈ വോളിയത്തിൽ വ്യതിചലന സിദ്ധാന്തം പ്രയോഗിച്ചാൽ വോളിയം ശരിയാക്കുന്ന ഫ്ലക്സ് ഞാൻ ശ്രദ്ധിക്കണം വ്യതിചലന സിദ്ധാന്തത്തിന്റെ ആശയപരമായ അർത്ഥം അതാണ് ഉള്ളിലെ ഉറവിടങ്ങളുടെ വ്യതിചലനം ഔട്ട്ഗോയിംഗ് ഫ്ളക്സിന് തുല്യമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വോള്യം ഒന്ന് എത്ര പ്രതലങ്ങളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു രണ്ട് ഉപരിതല ഫ്ലക്സ് എസ് വഴി പുറത്തേക്കോ പുറത്തേക്കോ വഴിയോ ചോർന്നേക്കാം അതിനാൽ ഞാൻ ഈ വ്യതിചലന സിദ്ധാന്തം എഴുതുമ്പോൾ രണ്ട് പ്രതലങ്ങളിലൂടെയും എനിക്ക് ഫ്ലക്സ് ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ ഈ വെക്ടറിന്റെ വിപരീതത്തെ നമുക്ക് ഇവിടെ വിളിക്കാം അത് ഇവിടെയുള്ള ബാഹ്യ സാധാരണമാണ് നമുക്ക് ഇതിനെ n 1 എന്ന് വിളിക്കാം നമുക്ക് ഇതിനെ ശരി എന്ന് വിളിക്കാം അതിനാൽ ഇവിടെ പ്രയോഗിച്ച വ്യതിചലന സിദ്ധാന്തം എനിക്ക് മൊത്തം ഫ്ലക്സ് നൽകും അതിനാൽ ഇത് എനിക്ക് s ആയി തരും വിദ്യാർത്ഥി ശരിയാണ് ഇത് ബാഹ്യമായ സാധാരണമാണ് കാരണം ഈ വോളിയം വിടുന്ന എല്ലാ ഫ്ലക്സുകളും ഞാൻ നോക്കുകയാണ് അതിനാൽ ബാഹ്യ ഫ്ലക്സ് പ്ലസ് ആണ് ഫ്ലക്സുകളുടെ ഈ നേരായ ബജറ്റിംഗ് ശരിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് വളരെ അകലെയാണ് ഞങ്ങളുടെ ഉറവിടം ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു അതിനാൽ അതിർത്തിയുടെ അനന്തതയിൽ നാം ശാരീരികമായി പ്രതീക്ഷിക്കുന്നത് സംഭവിക്കും വിദ്യാർത്ഥി ഫീൽഡ് ഫീൽഡ് 0 വലത്തേക്ക് പോകണം അതിനാൽ ഈ പദം 0 ശരിയിലേക്ക് പോകും ഇവിടെ രണ്ടാമത്തെ ടേമിലേക്ക് വരുമ്പോൾ ഞാൻ രണ്ടാമത്തെ പദങ്ങൾ എന്ന് എഴുതുന്നത് ശരിയാണ് അവ പരസ്പരം എതിർക്കുന്ന ബന്ധം എന്താണ് അതിനാൽ എനിക്ക് ഇത് ശരി എന്ന് എഴുതാം കാരണം ഈ സാധാരണ പുറത്തേക്ക് പോകുന്നത് ഈ ദിശയിലായതിനാൽ സാധാരണയെ ഈ ഉപരിതലത്തിലേക്ക് വിളിക്കാൻ ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് എന്നാൽ ഞാൻ വോളിയം 1 ലേക്ക് വ്യതിചലന സിദ്ധാന്തം നടത്തുമ്പോൾ ഞാൻ ശരിയായ ഔട്ട് ഗോയിംഗ് ഫ്ലക്സ് വെക്റ്റർ വലത്തേയ്ക്ക് എടുക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ എനിക്ക് മുഴുവൻ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും അല്ലെങ്കിൽ കൺവെൻഷൻ ഉപയോഗിച്ച് എനിക്ക് അത് പരിഹരിക്കാൻ കഴിയും എന്നെ ആശ്രയിച്ചിരിക്കുന്നു ശരി ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു അതിനാൽ ഉള്ളിലുള്ളത് സാധാരണമാണോ അതിനാലാണ് മൈനസ് അടയാളം ഉള്ളത് അതെ അതിർത്തി എവിടെയാണെന്നതിന്റെ ഒരു ഫംഗ്ഷനായി അതിനാൽ ഇത് അവിഭാജ്യമാണെന്ന് ഓർമ്മിക്കുക ഇത് ഒരു കോണ്ടൂർ ഇന്റഗ്രൽ ആണ് ഇത് അതിർത്തിയിൽ മാത്രം വിലയിരുത്തപ്പെടുന്നു ഇത് ഒരു വോളിയം വലത്തിൽ വിലയിരുത്തപ്പെടുന്നില്ല അതിനാൽ സാധാരണയായി നിർവചിച്ചിരിക്കുന്ന അതിർത്തിയിൽ മാത്രമാണ് ഇത് ചിത്രത്തിൽ വരുന്നത് അതിനാൽ ഞങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തും മുമ്പത്തെ പേജിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വെക്റ്റർ കാൽക്കുലസ് ഐഡന്റിറ്റി ഇതായിരുന്നു ശരിയാണ് വോളിയത്തിൽ സംയോജിപ്പിച്ചത് ഇതാണ് ഡിവി ഇവിടെ നഷ്ടമായത് ഈ സാഹചര്യത്തിൽ dS ആണ് കാരണം ഞാൻ ഒരു 2D പ്രശ്നത്തിലേക്ക് നീങ്ങി ശരി ഞങ്ങൾ നേരത്തെ ഉരുത്തിരിഞ്ഞത് ഉപയോഗിച്ച് ഇത് മുഴുവൻ കാര്യമായി മാറി നമ്മുടെ വ്യതിചലന സിദ്ധാന്തം ശരിയായി പ്രയോഗിക്കുന്നിടത്താണ് ഈ സംഗതി മുഴുവനായി മാറുന്നത് അതിനാൽ ഇത് ശരിയാകും ഇത് അവസാനിച്ചു ശരിയാണ് അതിനാൽ വളരെ സങ്കീർണ്ണമായ ഒന്നും ഞങ്ങൾ അടിസ്ഥാനപരമായി എടുത്തത് ഞങ്ങളുടെ രണ്ട് സമവാക്യങ്ങളോടെയാണ് ഞങ്ങൾ ആരംഭിച്ചത് ഈ രണ്ട് ആളുകളും ഈ രണ്ട് ഗ്രീൻസ് ഫംഗ്ഷനുകളിൽ നിന്ന് കുറച്ചാൽ ഈ ഗ്രീൻസ് ഫംഗ്ഷനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല അതിനാൽ അവ ശരിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു മറ്റൊരു മൊഡ്യൂളിൽ അവ എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും എന്നാൽ ഇപ്പോൾ അവ അറിയപ്പെടുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം ഈ ബന്ധം ലഭിക്കുന്നതിന് ഞങ്ങൾ അവയെ കുറയ്ക്കുകയും ചില വെക്റ്റർ കാൽക്കുലസ് പ്രയോഗിക്കുകയും ചെയ്തതിന് ശേഷം ഈ ബന്ധം ശരിയാക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ വ്യതിചലന സിദ്ധാന്തം പ്രയോഗിച്ചു ഇപ്പോൾ ഞാൻ ഈ സമവാക്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ വോളിയം വലത് സംബന്ധിച്ച് സംയോജിപ്പിക്കാൻ പോകുകയാണ് അതിനാൽ വോളിയം സംയോജനം എന്തായിരുന്നു എന്നത് ഒരു അവകാശമായിരുന്നു അതിനാൽ ഞാൻ ഈ സംയോജനം നടത്തിയാൽ ഇതെല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ് g എങ്ങനെ കണക്കാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾ അതിലേക്ക് പോകും അതിനാൽ പ്രശ്നത്തിൽ Q നൽകിയിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നു കാരണം Q എന്നത് നിലവിലെ ഉറവിടം ക്യാപ്ചർ ചെയ്യുന്നു അതിനാൽ ഈ പദം നിങ്ങൾക്ക് ഓക്കെ നൽകിയിരിക്കുന്നു അതിനാൽ ഇത് എനിക്കറിയാം ഞാൻ ഇതിനെ സംഭവ ഫീൽഡ് പോലെ വിളിക്കാൻ പോകുന്നു കാരണം അതിൽ നിലവിലെ ഉറവിടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ട് നിലവിലെ ഉറവിടത്തിൽ നിന്ന് പുറത്തുവരുന്ന ചില സംഭവ ഫീൽഡുകൾ ശരിയായി ചിതറിപ്പോകാൻ പോകുന്നു അതിനാൽ ഞാൻ ഇതിനെ r അല്ലെങ്കിൽ r എന്നതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം എന്ന് വിളിക്കാൻ പോകുന്നു വിദ്യാർത്ഥി പ്രൈം ശരിയാണ് കാരണം നിലവിലെ ഉറവിടവും എല്ലാം ഉള്ള സ്ഥലത്തെ ഞാൻ സംയോജിപ്പിക്കുകയാണ് നിലവിലെ ഉറവിടം r വലത്തിന്റെ ഒരു ഫംഗ്ഷനാണ് അതിനാൽ എനിക്ക് r ok അവശേഷിക്കുന്നു അത് ഈ വ്യക്തിക്ക് നന്ദി കാരണം r r എന്നിവയുടെ പ്രവർത്തനമാണ് r ന്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ അത് ഈ അവിഭാജ്യ സംഖ്യ മാത്രമായിരിക്കും അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത് ഇതാണ് ഞങ്ങൾ അൽപ്പം ശ്രദ്ധ പുലർത്തേണ്ട പദമാണ് കാരണം നിങ്ങൾ ലളിതമാക്കിയ മറ്റെല്ലാ നിബന്ധനകളും അതിനാൽ ഈ പദം ഈ മൈനസ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ശരി അവശേഷിക്കുന്നത് ഇവിടെ വലതുവശത്തുള്ള ഈ അവസാന പദമാണ് അതിനാൽ അതായത് അപ്പോൾ ഈ ഫംഗ്ഷന്റെ മൂല്യം എന്തായിരിക്കും എനിക്ക് ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ഉണ്ട് അത് മറ്റൊരു ഫംഗ്ഷനാൽ ഗുണിക്കുകയും ഞാൻ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥി അതിനാൽ ഏതാണ്ട് ശരിയാണ് അതിനാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക അതിനാൽ ഇത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറയാം r എനിക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് r അതിനാൽ സംയോജനത്തിന്റെ അളവ് എങ്കിൽ ഒന്നല്ല ഞാൻ നന്നായി പ്രേരിപ്പിക്കും അതിനാൽ ഇതാണ് ഈ ഡയറക് ഡെൽറ്റ ഫംഗ്ഷൻ ആ പല മാനങ്ങളിലുള്ള ഒരു ഫംഗ്ഷനാണ് അതിനാൽ ഇതൊരു വോളിയം സംയോജനമാണെങ്കിൽ ഇത് ത്രീ ഡൈമൻഷൻ ഡെറിവേഡ് ഡെൽറ്റ ഫംഗ്ഷനാണ് ഇത് 2 ഡി കേസ് ആണ് അതിനാൽ ഇത് ടു ഡൈമൻഷൻ ഡിറൈവ്ഡ് ഡെൽറ്റ ഫംഗ്ഷൻ ആണ് അതിനാൽ rr എവിടെയാണെങ്കിലും ഈ ഡെൽറ്റ ഫംഗ്ഷൻ വലതുവശത്തുള്ള ഫംഗ്ഷന്റെ മൂല്യം എക്സ്ട്രാക്റ്റുചെയ്യും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് നിബന്ധനകളൊഴികെ ഞാൻ ഈ റീജിയൻ വോളിയം 1 ൽ സംയോജിപ്പിക്കുകയാണ് അതാണ് ഞാൻ ചെയ്യുന്നത് മുഴുവൻ സ്ഥലവും ശരിയല്ല അതിനാൽ r ന്റെ സ്ഥാനത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സമവാക്യത്തിൽ r എന്ന് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല r എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് ചില വേരിയബിൾ ശരിയാണ് അതിനാൽ ഈ വോള്യം ഇവിടെ നോക്കുമ്പോൾ r എന്നത് r എവിടെ ആയിരിക്കാമെന്നോ എവിടെ ആയിരിക്കാമെന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല r ആണെങ്കിൽ അതായത് r എന്നത് നമുക്ക് ഇവിടെ പറയാം r അടങ്ങിയിരിക്കുന്ന ആ വോള്യത്തെ ഞാൻ സംയോജിപ്പിക്കുകയാണ് അതായത് r എന്നത് r ന് തുല്യമായ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും ആ വോള്യത്തിന് മുകളിൽ ഞാൻ ഡെൽറ്റ ഫംഗ്ഷൻ സംയോജിപ്പിക്കുമ്പോൾ ഈ അവിഭാജ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ലഭിക്കും പ്രൈം കൃത്യമായി മറുവശത്ത് r ഇവിടെ ഉള്ളതാണെങ്കിൽ ഞാൻ സംയോജിപ്പിക്കുകയാണ് ഡെൽറ്റ ഫംഗ്ഷന്റെ മൂല്യം എന്തായിരിക്കും എല്ലായിടത്തും 0 ശരിയാണ് അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളും വെക്റ്റർ കാൽക്കുലസും ഒരു പോലെ നൃത്തം ചെയ്യുന്ന രീതിയിലുള്ള വഴിയിൽ പരസ്പരം സഹായിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ അവസാന സമവാക്യത്തിലേക്ക് നമ്മൾ ഇവിടെ തന്നെ എത്തണം തുടർന്നുള്ള സ്ലൈഡുകളിൽ നമ്മൾ അതിന് വളരെ മനോഹരമായ ഒരു ഫിസിക്കൽ വ്യാഖ്യാനം നൽകും അതിനാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും യഥാർത്ഥത്തിൽ 2 സമവാക്യങ്ങളുള്ള ഏറ്റവും ഉയർന്ന സമവാക്യങ്ങൾ ഇവിടെ അവസാനിച്ചു ഒന്ന് r r റേതാണ് രണ്ടാമത്തേത് r ആണ് അതിനാൽ r ടേതായിരിക്കുമ്പോൾ അത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല പക്ഷേ ഹ്യൂഗൻസിന്റെ തത്വം ശരിയാണ് ഓരോ പദത്തിനും ഞങ്ങൾ ഒരു ഭൌതിക വ്യാഖ്യാനം നൽകും ഇത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് അതിനാൽ ഇതുവരെ അല്ലെങ്കിൽ ഈ പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിനെ വംശനാശ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു അതിനാൽ ഈ സമവാക്യങ്ങൾ സ്വയം പരിഹരിക്കുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എന്നതാണ് ഒരു നല്ല ചോദ്യം ഞങ്ങൾക്ക് ലൈൻ ചാർജ് ഉണ്ടായിരുന്ന മുൻ പ്രശ്നത്തിൽ ഞങ്ങൾ അവയെ ഡിസ്ക്രിറ്റൈസ് ഇന്റഗ്രേറ്റഡ് എടുത്ത് പരിഹാരം കണ്ടെത്തി ഇവിടെ പ്രശ്നം എന്തെന്നാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ നിങ്ങൾക്കും അതിർത്തി വ്യവസ്ഥകൾ കൃത്യമായി ഏർപ്പെടുത്തേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത വോള്യങ്ങൾ ശരിയാണ് അതിനാൽ അതിരുകളിൽ ബഹുമാനിക്കേണ്ടത് ടാൻജൻഷ്യൽ ഇ ഫീൽഡ് ടാൻജെൻഷ്യൽ എച്ച് ഫീൽഡ് സംരക്ഷിക്കേണ്ടതുണ്ട് ഞാൻ ഈ രണ്ട് സമവാക്യങ്ങൾ മാത്രം നോക്കുമ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും ശരിയായ അതിർത്തി വ്യവസ്ഥകളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല ഇത് ഇവിടെ പോയിന്റ് ബൈ പോയിന്റ് റിലേഷൻ ആണ് അതിർത്തി വ്യവസ്ഥ ചുമത്താൻ എനിക്ക് ഒരു മാർഗവുമില്ല വിദ്യാർത്ഥി കൂടാതെ ഞങ്ങൾ 2 ആയി അവതരിപ്പിച്ചത് മാത്രമാണ് 2 വ്യത്യസ്ത വേരിയബിളുകളായി വിദ്യാർത്ഥി സർ അവർ ഒന്നും ആകുന്നില്ല ഗണിതശാസ്ത്രപരമായി അവ വൈദ്യുത മണ്ഡലങ്ങളാണ് വോളിയം 1 ഏതാണെന്ന് അവർക്ക് അറിയില്ല അത് വോളിയം 2 ശരിയാണ് അതിനാൽ അതിർത്തി വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നത് പൂർണ്ണമായും സാധ്യമല്ല മറ്റൊരു പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ശരിയായ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല ചാർജുകൾ ഉപരിതലത്തിൽ ഉണ്ട് അത് ശരിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സമവാക്യങ്ങൾ കുറയ്ക്കുകയും പിന്നീട് ഒരു പ്രത്യേക വോള്യം സംയോജിപ്പിക്കുകയും ചെയ്യുന്നത് അതിനാൽ ഞങ്ങൾ ന് മാത്രമേ സംയോജിപ്പിച്ചുള്ളൂ തുടർന്ന് ഞങ്ങൾ സംയോജിപ്പിക്കും ഈ സമവാക്യം എനിക്ക് ശരിയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇപ്പോൾ ഉപരിതലത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ വലതു വശം ഞാൻ അതിർത്തി വ്യവസ്ഥ ഏർപ്പെടുത്താൻ പോകുന്ന വഴിയായിരിക്കും അവിടെയാണ് വോളിയം ഉപരിതലത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ഇവിടെ വലതുവശത്ത് ബൌണ്ടറി അവസ്ഥ പ്രയോഗിക്കും അതിനാൽ വ്യതിചലന സിദ്ധാന്തം ഉപയോഗിച്ച് വോളിയത്തിന് മുകളിൽ സംയോജിപ്പിക്കുന്നതിനുള്ള ഈ തന്ത്രം ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ശരിയാണ് അതിനാൽ ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയും പിന്നീട് ഈ നിബന്ധനകളുടെ ഭൌതിക വ്യാഖ്യാനം നോക്കുകയും ചെയ്യും